ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ പേര് ആരാധ്ന മാലിക് ഈ കോഴ്സ് മനസിലാക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് പല വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ജീവനക്കാരുടെ ആരോഗ്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ജോലിസ്ഥലത്തെ ജീവനക്കാരുടെ ആരോഗ്യവും ക്ഷേമവും അതിനാൽ നമുക്ക് അതിലേക്ക് കടക്കാം ഞാൻ ഉപയോഗിച്ച സ്രോതസ്സുകൾ ഇവയെല്ലാമാണ് ഞാൻ നിരവധി സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ചില പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കാസിയോ ഗിൽമോർ വില്യംസ് Cascio Gilmore and Williams എന്നിവരുടെ ഈ പുസ്തകമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് എഡിറ്റ് ചെയ്ത ഒരു വോളിയമാണ് റോബിൻസ് ജഡ്ജ് വോഹ്റ Robbins Judge Vohra ഗോമസ് മേജിയ് ബാൽകിന് കാർഡി Gomez Mejia Balkin Cardy ഇവരുടെ പുസ്തകവും കൂടാതെ ഞാൻ കുറച്ച് ഗവേഷണ പ്രബന്ധങ്ങളും ഉപയോഗിച്ചു ഒന്ന് സ്മിത്ത് അസോസിയേറ്റ്സ് Smith Associates മറ്റൊന്ന് ഇദ്രിസ് അസോസിയേറ്റ്സ് Idris Associates ഞാൻ ഉപയോഗിച്ച മറ്റ് പേപ്പർ ഡിക്സൺ സ്വിഫ്റ്റ് അസോസിയേറ്റ്സ് Dickson Swift Associates ആണ് അതിനാൽ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അതിനാൽ നമുക്ക് ജോലിസ്ഥലത്തെ മാനസികവും സാമൂഹികവും ആയ സുരക്ഷാ പരിതസ്ഥിതി കൂടാതെ മാനസിക ആരോഗ്യം ക്ഷേമം എന്നിവയിലേക്ക് പോകാം ജോലിസ്ഥലത്തെ ആരോഗ്യവും ക്ഷേമവും എന്താണെന്ന് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇപ്പോൾ നമ്മൾ ഈ സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ ഈ സ്ലൈഡ് യഥാർത്ഥത്തിൽ മാനസിക സാമൂഹിക സുരക്ഷാ പരിതസ്ഥിതിയെകുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് വലിയ ഒരു പദമാണ് എന്നാൽ അർത്ഥം വളരെ ലളിതമാണ് സൈക്കോസോഷ്യൽ നമുക്ക് ഈ പദത്തെ വേർതിരിക്കാം മാനസികവും സാമൂഹികവും ഇത് നമ്മുടെ മനസ്സുമായി അതുപോലെ ബന്ധപ്പെട്ട ആളുകളുമായി പ്രധാനപ്പെട്ട ആളുകളുമായി ദൈനംദിന അടിസ്ഥാനത്തിൽ നമ്മുടെ പരിതസ്ഥിതിയിൽ ഇടപഴകുന്ന ആളുകളുമായി എല്ലാമുള്ള നമ്മുടെ ഇടപഴകലുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇതാണ് സൈക്കോസോഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ മാനസിക സാമൂഹിക സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു മാനസിക സാമൂഹിക സുരക്ഷാ പരിതസ്ഥിതി അതിനാൽ നമ്മൾ നമുക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന പൊതു അന്തരീക്ഷത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് മാനസികമായും സാമൂഹികമായും നമ്മെ ഭയപ്പെടുത്താത്ത സുഖവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന പരിതസ്ഥിതി അതാണ് മാനസിക സാമൂഹിക സുരക്ഷാ പരിതസ്ഥിതി അർത്ഥമാക്കുന്നത് അതിനാൽ പൊതുവായ അന്തരീക്ഷം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പരിതസ്ഥിതി അതിൽ നമ്മൾക്ക് ഭീഷണി അല്ല മറിച്ച് സുരക്ഷിതത്വം തോന്നുന്നുവെങ്കിൽ അതിനെ നമ്മൾ മാനസിക സാമൂഹിക സുരക്ഷാ പരിതസ്ഥിതി എന്ന് വിളിക്കുന്നു കൂടാതെ ജോലിസ്ഥലത്തെ മാനസിക ആരോഗ്യവും ക്ഷേമവും മാനസികാരോഗ്യം എന്നാൽ മനസിന്റെ ആരോഗ്യം നിങ്ങൾക്കറിയാമോ മാനസികം എന്ന വാക്കിന് വളരെ നിർഭാഗ്യകരമായ ഒട്ടും സുഖകരമല്ലാത്ത അർത്ഥമുണ്ട് മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഭ്രാന്തന്മാരെയാണ് പരാമർശിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നു അതല്ല ഇത് എന്താണ് അർത്ഥമാക്കുന്നത് മാനസികാരോഗ്യം എന്നതുകൊണ്ട് വളരെ ലളിതമായി അർത്ഥമാക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യം എന്നാണ് നമ്മൾ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സമ്മർദ്ദ നിലകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ജോലി കുടുംബം ഇത് രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നതിനുള്ള നമ്മുടെ കഴിവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ജോലി സംതൃപ്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ജോലിസ്ഥലത്തെ വികാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനുഷ്യരാണ് എനിക്ക് എന്റെ ജോലി ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം എനിക്ക് എന്റെ സഹപ്രവർത്തകരെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം എനിക്ക് സമയപരിധികൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം എന്റെ സമയപരിധി എനിക്ക് സുഖമോ അസൌകര്യമോ ആകാം എനിക്ക് സമ്മർദ്ദം സഹിക്കാൻ സാധിക്കും എന്നാൽ വളരെയധികം സമ്മർദ്ദം സഹിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്കറിയാമോ ഇവയെല്ലാം മാനസിക ക്ഷേമമായി കണക്കാക്കുന്നു ഞാൻ എങ്ങനെ സമ്മർദ്ദം താങ്ങും സമയപരിധികൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും നമ്മളിൽ ചിലർ വളരെ വളരെ കഠിനാധ്വാനികളാണ് കൂടാതെ നമ്മളുടെ സമയപരിധി നമ്മൾ തീരുമാനിക്കുന്നു പക്ഷേ ആരെങ്കിലും നമ്മുടെ മേൽ സമയപരിധികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നിമിഷം നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി തോന്നുന്നു നമ്മൾ വളരെയധികം സമ്മർദ്ദം എടുക്കുന്നു നമ്മുടെ രക്തസമ്മർദ്ദം കുത്തനെ വർദ്ധിക്കുന്നു കൂടാതെ നമ്മൾ തളർന്നുപോകുന്നതായി നമ്മൾക്ക് തോന്നുന്നു കൂടാതെ നമ്മൾക്ക് നമ്മളുടെ ജോലി ചെയ്യാൻ കഴിയാതെ വരുന്നു പക്ഷേ അതേ സമ്മർദ്ദം നമ്മളിൽത്തന്നെ നമ്മൾ ചെലുത്തുകയാണെങ്കിൽ നമുക്ക് അത് കുഴപ്പമില്ല അതിനാൽ നിങ്ങൾക്കറിയാമോ നമ്മൾ മാനസിക ക്ഷേമത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഇതാണ് എത്രത്തോളം സമ്മർദ്ദം നമുക്ക് അനുഭവപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു കൂടാതെ നമ്മുടെ തൊഴിൽ അന്തരീക്ഷത്തിൽ മാനസികമായി എത്ര സുഖം നമുക്ക് അനുഭവപ്പെടുന്നു എന്നതും നമ്മൾ കാണുന്നു നന്നായി പ്രവർത്തിക്കുന്നതിനും സംതൃപ്തരാകുന്നതിനും നമ്മളുടെ ജോലിയിൽ സംതൃപ്തരാകുന്നതിനും ഉൽപ്പാദനക്ഷമമായ ഒരു പ്രവൃത്തിദിനത്തിനും പ്രവൃത്തി ആഴ്ചയ്ക്കും ഇത് തികച്ചും അനിവാര്യമാണ് കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജരുടെ വീക്ഷണകോണിൽ ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളും ജോലിസ്ഥലത്ത് സുഖമായിരിക്കുക എന്നത് തികച്ചും അനിവാര്യമാണ് അതുകൊണ്ടാണ് മനഃശാസ്ത്രപരമായ സുരക്ഷാ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ചർച്ച വളരെ പ്രാധാന്യമർഹിക്കുന്നത് മാനവവിഭവശേഷി പ്രൊഫഷണലുകളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ മനഃശാസ്ത്രപരമായ സുരക്ഷാ പരിതസ്ഥിതി എന്നത് ജോലിസ്ഥലത്ത് മാനസിക ആരോഗ്യത്തിനും ക്ഷേമത്തിനും നൽകുന്ന മുൻഗണനയെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാരുടെ വീക്ഷണകോണിൽ മനഃശാസ്ത്രപരമായ സുരക്ഷാ അന്തരീക്ഷം ജോലിസ്ഥലത്ത് മനഃശാസ്ത്രപരമായ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും നമ്മൾ നൽകുന്ന ഭാരം പ്രാധാന്യം എത്രത്തോളം ആണെന്നതിനെ സൂചിപ്പിക്കുന്നു കൂടാതെ മാനസിക സാമൂഹിക സുരക്ഷാ പരിതസ്ഥിതിയുടെ ചില ഘടകങ്ങൾ മാനേജ്മെന്റ് പിന്തുണയും പ്രതിബദ്ധതയും ആണ് മാനേജുമെന്റിന് മാനസിക സുരക്ഷയുടെ ഒരു പരിതസ്ഥിതി നിലനിർത്താൻ എത്രമാത്രം താൽപ്പര്യമുണ്ട് നിങ്ങളുടെ ജോലി പരിതസ്ഥിതിയിൽ ക്ഷേമത്തിന്റെയും ആശ്വാസത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തുന്നതിൽ മാനേജ്മെന്റിന് എത്രത്തോളം താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ് പിന്നെ മാനേജ്മെന്റിന്റെ മുൻഗണന അവരുടെ മുൻഗണനകളുടെ പട്ടികയിൽ അത് എത്ര ഉയർന്നതാണ് ഇതെല്ലാം പ്രധാനമാണ് സംഘടനാ ആശയവിനിമയമാണ് മറ്റൊന്ന് ആളുകൾ പ്രതിജ്ഞാബദ്ധരായിരിക്കാം നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പ്രതിജ്ഞാബദ്ധനായിരിക്കാം എന്നാൽ അവർ നിങ്ങളോട് ആശയവിനിമയം നടത്തിയേക്കില്ല അത് എത്ര പ്രധാനമാണെന്ന് അവർ നിങ്ങളോട് പറഞ്ഞേക്കില്ല ഒപ്പം നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസർ എന്ന നിലയിൽ അവർ അവരുടെ ശേഷിയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ തൊഴിൽ അന്തരീക്ഷത്തിൽ കംഫർട്ടബിൾ ആയിരിക്കാൻ കഴിയില്ല സംഘടനാപരമായ പങ്കാളിത്തവും പങ്കുചേരലുമാണ് മറ്റൊരു ഘടകം സംഘടന എത്രത്തോളം ഉൾപ്പെട്ടിരിക്കുന്നു അവർ ചിലപ്പോൾ നിങ്ങൾക്കായി പ്രോഗ്രാമുകൾ ഉണ്ടാക്കിയിരിക്കാം പക്ഷേ ആ പ്രോഗ്രാമുകൾ പരസ്യപ്പെടുത്താത്ത പക്ഷം നിങ്ങളുടെ സൂപ്പർവൈസർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണ് എന്ന് നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇതിന് എത്രത്തോളം മുൻഗണനയാണ് നൽകുന്നതെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയേക്കില്ല അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ജോലിസ്ഥലത്തെ മാനസിക സാമൂഹിക സുരക്ഷാ പരിസ്ഥിതിയിലെ അല്ലെങ്കിൽ മാനസിക ക്ഷേമത്തിന്റെ ഘടകങ്ങളായി രൂപപ്പെടുന്നു ഇപ്പോൾ ജീവനക്കാർക്ക് സുരക്ഷിതത്വം തോന്നുന്നുവെങ്കിൽ അവർക്ക് ഭീഷണിയിലെങ്കിൽ റിസ്ക് എടുക്കാനും കൂടുതൽ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും വിഭവങ്ങൾ നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനുമുള്ള സുരക്ഷിതമായ സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടെന്ന ചിന്ത അവരിൽ ഉണ്ടാകും അതിനാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങളെ പരിപാലിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവർ നിങ്ങളെ ഏൽപ്പിച്ചതെന്തും ചെയ്യാൻ നിങ്ങൾക്ക് സുഖകരമായ പരിതസ്ഥിതി അവർ ഉറപ്പാക്കുമെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അശ്രദ്ധമായി നിങ്ങൾക്ക് മുറിവേറ്റാൽ അവർ നിങ്ങളെ നോക്കുമെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി ആവശ്യപെടുനതിന് മുകളിലേക്കും അപ്പുറത്തേക്കും പോകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും കൂടാതെ അത് ഒരു വിൻ വിൻ സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് സന്തോഷം തോന്നും നിങ്ങൾക്ക് സ്ഥാപനവുമായി ബന്ധം തോന്നും നിങ്ങളുടെ കുടുംബത്തെപ്പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും തങ്ങൾക്ക് പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തകനുണ്ടെന്ന് അവർക്ക് തോന്നും നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത ഉയരും തൽഫലമായി സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് ഉയരും കൂടാതെ എല്ലാവർക്കും ഈ ലാഭത്തിന്റ ഒരു പങ്ക് ലഭിക്കുന്നു സംഘടന കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ഉയർന്ന ബോണസ് ലഭിക്കുന്നു അതിനാൽ ഇത് എല്ലാവർക്കും അനുകൂലമാണ് കൂടാതെ നിങ്ങളുടെ ജോലി നിങ്ങൾ ആസ്വദിക്കുന്നു അതിനാൽ നിങ്ങൾ ജോലി ഉപേക്ഷിക്കില്ല അതിനാൽ നിങ്ങളുടെ കംഫർട്ട് ലെവലുകൾ നോക്കുന്ന ഒരു ഓർഗനൈസേഷനോട് ഒരു മെച്ചപ്പെട്ട വിശ്വസ്തതാബോധം ഉണ്ടാകുന്നു ഇതിലെ ആദ്യത്തെ വിഷയം ജോലി സമ്മർദ്ദമാണ് സമ്മർദ്ദം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം സമ്മർദ്ദം എന്നത് ചലനാത്മകമായ ഒരു അവസ്ഥയാണ് അതിൽ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഒരു അവസരം ഡിമാൻഡ് അല്ലെങ്കിൽ വിഭവം അഭിമുഖീകരിക്കേണ്ടിവരികയും അതിന്റെ ഫലം അനിശ്ചിതവും പ്രധാനപ്പെട്ടതും ആവുകയും ചെയ്യുന്നു ഇത് വളരെ നീണ്ട ഒരു നിർവ്വചനമാണ് സമ്മർദ്ദം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു പക്ഷേ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ലയെങ്കിൽ അത് സമ്മർദ്ദം ഉണ്ടാകുന്നു അതിനാൽ അനിശ്ചിതത്വവും പ്രാധാന്യവും സമ്മർദ്ദത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഞാൻ സമ്മർദത്തിലാണ് നിങ്ങൾക്കറിയാമോ നമ്മൾ സാധാരണയായി പറയുന്നു ഒന്നാണിത് എനിക്ക് വല്ലാത്ത സമ്മർദ്ദമുണ്ട് എന്തിനെക്കുറിച്ചാണ് സമ്മർദ്ദത്തിലായത് എന്റെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ സമ്മർദ്ദത്തിലാണ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്റെ ബോസ് എന്ത് പറയും എന്നതിനെക്കുറിച്ച് ഞാൻ സമ്മർദത്തിലാണ് ഞാൻ ചെയ്ത ഒരു കാര്യത്തിന്റെ ഫലത്തെക്കുറിച്ച് ഞാൻ സമ്മർദ്ദത്തിലാണ് ജോലിസ്ഥലത്ത് നാളെ എനിക്ക് എന്ത് നേരിടേണ്ടിവരുമെന്നതിൽ ഞാൻ ആശങ്കാകുലനാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എന്റെ ജീവിതം എങ്ങനെ രൂപപ്പെടും എന്നതിനെക്കുറിച്ച് ഞാൻ ആശങ്കാകുലനാണ് അതായത് ഒരു തെരുവ് നായ റോഡിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സമ്മർദ്ദത്തിലാവാൻ സാധിക്കില്ല തീർച്ചയായും നിങ്ങൾ ഒരു മൃഗസ്നേഹിയാണെങ്കിൽ ഈ നായയെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കാം പക്ഷേ ഒരു തെരുവ്നായ ഒരു മൃഗം വഴിയിൽ അടിക്കപ്പെടുന്നതിനെക്കുറിച്ചോ മൃഗത്തിന് അതിജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം ദിവസം കഴിയ്ക്കാനുള്ളത് ലഭിച്ചേക്കില്ല തുടങ്ങിയവയെക്കുറിച്ച് നിങ്ങൾ ശരിക്കും വിഷമിക്കാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വളർത്തുമൃഗത്തിന് കൃത്യസമയത്ത് ഭക്ഷണം നൽകുന്നതിൽ സമ്മർദ്ദം അനുഭവിക്കുന്നു അതിനാൽ ജോലിയെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് നിങ്ങളുടെ അയൽക്കാരന്റെ ഔട്ട്പുട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു ഫാക്ടറിയിലെ പണിമുടക്കിനെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ നിങ്ങൾക്ക് സമ്മർദ്ദം തോന്നിയേക്കില്ല പക്ഷേ നിങ്ങളുടെ ജോലിയോടുള്ള നിങ്ങളുടെ ബോസിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും അല്ലെങ്കിൽ കമ്പനി അവർക്ക് ബോണസ് നിഷേധിച്ചുവെന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർ കണ്ടെത്തുമ്പോൾ അവർ എന്ത് പറയും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സമ്മർദമുണ്ടാകാം ഇത് കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പണിമുടക്കിനുള്ള സാധ്യത ഉണ്ടെന്നത് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും എന്തുകൊണ്ടെന്നാൽ അത് വളരെ പ്രധാനമാണ് പിന്നെ എന്തുകൊണ്ടാണ് അത് പ്രധാനമായത് കാരണം അത് നിങ്ങളെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കാൻ പോകുന്നു കൂടാതെ അനിശ്ചിതത്വം അതിനെ കൂടുതൽ ശക്തവും പ്രബലവുമാക്കുന്നു അതിനാൽ അത് കനത്തതാണ് അത് ഇവിടെ ഇരിക്കുന്നു അതായത് ആ ഭാരം നിങ്ങളുടെ തോളിൽ ആവുന്നു ഇനി നമുക്ക് സമ്മർദ്ദത്തിന്റെ തരങ്ങൾ നോക്കാം ജോലിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന രണ്ട് തരം വിശാലമായ വിഭാഗങ്ങൾ ഉണ്ടാകാം നമുക്ക് ചലഞ്ച് സ്ട്രെസ്സർസ് ഉണ്ട് കൂടാതെ നമുക്ക് ഹിണ്ടറൻസ് സ്ട്രെസ്സർസ് ഉണ്ട് ജോലിഭാരം ജോലികൾ പൂർത്തിയാക്കാനുള്ള സമ്മർദ്ദം സമയത്തിന്റെ അടിയന്തിരത എന്നിവയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളാണ് ചലഞ്ച് സ്ട്രെസറുകൾ കൂടാതെ ഹിണ്ടറൻസ് സ്ട്രെസ്സർസ് എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന സമ്മർദ്ദങ്ങളായിരിക്കും അതിനാൽ നേടിയെടുക്കാൻ കഴിയുന്നതും എന്നാൽ ബുദ്ധിമുട്ടുള്ളതുമായ ലക്ഷ്യങ്ങൾ ആണ് ചലഞ്ച് സ്ട്രെസറുകൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാര്യങ്ങളാണ് ഹിണ്ടറൻസ് സ്ട്രെസ്സർസ് സമ്മർദ്ദത്തിന്റെ സാധ്യതയുള്ള സ്രോതസ്സുകൾ സമ്മർദ്ദം വന്നേക്കാവുന്ന വിവിധ ദിശകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തേത് പാരിസ്ഥിതിക ഘടകങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് സംഘടനാ ഘടകങ്ങളുണ്ട് കൂടാതെ നിങ്ങൾക്ക് വ്യക്തിപരമായ ഘടകങ്ങളുമുണ്ട് ഇവ ഓരോന്നും എന്താണെന്ന് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് കാണാം ജോലിസ്ഥലത്തെ സമ്മർദ്ദത്തിന്റെ സ്രോതസ്സുകൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സമ്മർദ്ദം എന്നത് അവരുടെ ചുറ്റുപാടിൽ വെല്ലുവിളി നിറഞ്ഞതോ വിഷമകരമോ ആയ സാഹചര്യങ്ങളോടുള്ള വ്യക്തിയുടെ പ്രതികരണത്തെ സൂചിപ്പിക്കുന്നു പരിതസ്ഥിതി നിങ്ങൾക്ക് നൽകുന്നുതിനെ മനസ്സിലാക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് ഇത് സമ്മർദ്ദം മറ്റൊന്നുമല്ല നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് ഏറ്റെടുക്കുന്നതാണ് ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് സമ്മർദ്ദത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണ നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ എത്രത്തോളം സമ്മർദ്ദത്തിലാണെന്ന് ഞാൻ തീരുമാനിക്കുന്നു ഈ കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകണമെന്നതും ഞാൻ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് നമ്മെ സമ്മർദ്ദത്തിലാക്കുന്ന സംഭവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഈ മുഴുവൻ ആശയത്തിനും നമ്മൾ വളരെ വളരെ പ്രധാന്യം നൽകുന്നത് കാരണം ഇത് എനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്നെ അത് സമ്മർദ്ദത്തിലാക്കും എന്റെ പരിതസ്ഥിതിയിൽ അനിശ്ചിതത്വമുള്ളത് എന്തായിരുന്നാലും എനിക്ക് നേരിടാൻ കഴിയുന്ന ഒന്നാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് അതിന്റെ പൂർണ നിയന്ത്രണമുണ്ട് ഈ അനിശ്ചിതത്വം തീർച്ചയായും ഒന്നുമാത്രമല്ല ഞാൻ അനിശ്ചിതത്വം ഇല്ലാതാക്കുകയാണെങ്കിൽ സമ്മർദ്ദത്തിന്റെ അളവ് കുറയും അതുമല്ലെങ്കിൽ ഞാൻ അതിന് അത്ര പ്രാധാന്യം നൽകുന്നില്ല അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും അന്വേഷിക്കുന്നു അങ്ങനെയാകുമ്പോൾ മുൻഗണനാ പട്ടികയിൽ ഇത് താഴേക്ക് പോകുന്നു സമ്മർദ്ദത്തെ നേരിടാനുള്ള വളരെ ഫലപ്രദമായ ഒരു മാർഗം ഇതാണ് അതിനാൽ ഇത് എന്റെ പ്രതികരണമാണ് അത് ഒരു വ്യക്തിയുടെ പ്രതികരണമാണ് നിയന്ത്രണത്തിന്റെ സ്ഥാനം എന്റെ ഉള്ളിൽ കിടക്കുന്നു നിങ്ങളിൽ എന്നെപ്പോലെ സമ്മർദ്ദം അനുഭവിക്കാൻ സാധ്യതയുള്ളവർ ദയവായി ഈ ഉപദേശം സ്വീകരിക്കുക കൂടാതെ നിങ്ങൾ എത്രത്തോളം സമ്മർദ്ദത്തിലാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നുവെന്നത് സ്വയം അംഗീകരിക്കുക ജോലിസ്ഥലത്ത് സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജോലിഭാരം ജീവനക്കാരുടെ ശേഷിയുമായി പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ജോലിഭാരം വളരെ കുറവാണ് അതിനാൽ നിങ്ങൾക്ക് നിരാശ തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ജോലിഭാരമുണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാത്തത്ര ജോലിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ജോലിയേ ഉള്ളൂ നിങ്ങൾ അത് പൂർത്തിയാക്കി ഇനി എന്തുചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു അവരുടെ ഓഫീസിൽ ഒരു ജീവനക്കാരനെ ശിക്ഷിക്കുന്നതിന് വളരെ ഫലപ്രദമായ ഒരു മാർഗ്ഗമുണ്ട് അവർക്ക് നൽകിയ ജോലി എടുത്തുകളയുക എന്നതാണ് അത് എന്നിട്ട് ഞാൻ ആ തന്ത്രം പരീക്ഷിച്ചു എന്റെ വിദ്യാർത്ഥികളിൽ പരീക്ഷിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി കണ്ടു നിങ്ങൾക്ക് ശരിക്കും ആരെയെങ്കിലും ശിക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള മാർഗം ഉയർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ ജോലി എടുത്തുകളയലാണ് ഒരു ജോലിയുമില്ല എന്നത് നിങ്ങളിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു കാരണം എന്തോ കുഴപ്പമുണ്ട് എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാകുന്നു വീണ്ടും പ്രാധാന്യം വർദ്ധിക്കുന്നു അടുത്തതായി എന്താണ് വരാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിക്കുന്നു പിന്നെ തീർച്ചയായും തിരുത്തൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജോലിയുടെ വേഗത വളരെ സാവധാനം അല്ലെങ്കിൽ വളരെ വേഗം ജോലിയിലെ ആശങ്കകൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എന്റെ സ്ഥാനത്തെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എന്റെ പ്രാധാന്യത്തെ ബാധിക്കും എന്ന ചിന്ത നമ്മെ സമ്മർദ്ദത്തിലാക്കുന്നു റോൾ വൈരുദ്ധ്യം ഇത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് റോൾ വൈരുദ്ധ്യം സൂചിപ്പിക്കുന്നത് നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ നിങ്ങൾ ചെയ്യാൻ പരിശീലിച്ചിട്ടില്ലാത്തതാവാം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുന്നതായി സങ്കൽപ്പിച്ചില്ലാത്തതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യവ്യവസ്ഥയുമായി വൈരുദ്ധ്യമുള്ള എന്തെങ്കിലും ആവാം അതിനാൽ നമ്മൾ റോൾ വൈരുദ്ധ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും ഓരോ സ്ഥാനങ്ങൾക്കും നമ്മൾ ആയിരിക്കുന്ന ഈ സ്ഥാനത്തെ വിവരിക്കുന്ന ഏറെക്കുറെ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു റോൾ ഉണ്ട് അതിനാൽ ഈ വിവരണത്തിന് അനുസൃതമല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ റോൾ വൈരുദ്ധ്യം സംഭവിക്കുന്നു കാരണം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെ ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു എന്നിട്ട് നിങ്ങളോട് പറയുന്നു ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്തും ചെയ്യാൻ നിങ്ങൾ പൊരുത്തപ്പെടുന്നു എന്നാൽ എങ്ങനെയെങ്കിലും ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ യുക്തിസഹമായ ചിന്ത ആ റോള് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചതും ഓർഗനൈസേഷൻ നിങ്ങളിൽ നിന്ന് ആ റോളിൽ എന്താണ് പ്രതീക്ഷിച്ചതും ഇവ രണ്ടിന്റെയും വിന്യാസം ചേരുന്നില്ലങ്കിൽ നിങ്ങൾക്ക് അത് സുഗകരമായി തോന്നില്ല അവിടെയാണ് സമ്മർദ്ദം ആരംഭിക്കുന്നത് അടുത്തത് വ്യക്തിബന്ധങ്ങളാണ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ഊന്നൽ നൽകാനാവില്ല നമ്മൾ സംസാരിക്കുന്നത് സമ്മർദ്ദത്തിന് ഊന്നൽ നൽകികൊണ്ടാണ് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന ഒന്ന് പലതവണ നമ്മൾക്ക് ഇണങ്ങിച്ചേരുവാൻ കഴിയാത്ത ആളുകളുമായി നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളുമായി നമ്മളിൽ നിന്നും സംഘടനയിൽ നിന്നും അവരിൽ നിന്ന് നമുക്ക് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ പ്രതീക്ഷകൾ ഉള്ളവരുമായെല്ലാം പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ആ സമയത്ത് നമ്മുടെ സഹപ്രവർത്തകരുമായുള്ള നമ്മുടെ ബന്ധം ചില സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കും അടുത്തത് വിഭവങ്ങളുടെ ലഭ്യതയും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉൾപ്പെടെ തൊഴിൽ നിയന്ത്രണം തിരിച്ചറിയുക എന്നതാണ് എന്റെ ജോലിയിൽ എനിക്ക് എത്ര വിഭവങ്ങൾ ഉണ്ട് അവയിൽ എനിക്ക് എത്രത്തോളം നിയന്ത്രണമുണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായത് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങളിലെ വഴക്കം നിങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരു സർഗ്ഗാത്മക ചിന്തകനാണെങ്കിൽ നിങ്ങളെ ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു ജോലിയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നവീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വളരെ അസ്വസ്ഥത തോന്നുന്നു മറുവശത്ത് നിങ്ങൾ ഒരു റൂൾ ഫോളോവർ ആണെങ്കിൽ നിങ്ങൾക്ക് നിർദേശങ്ങൾ ഇഷ്ടമാണ് നിങ്ങൾക്കറിയാമോ രണ്ടിനും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അതിനാൽ നിങ്ങൾക്ക് നിർദേശങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളോട് എന്തുചെയ്യണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായുള്ള നിർദ്ദേശങ്ങൾ നൽകപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളെ ഒരു റോളിൽ ഉൾപ്പെടുത്തുക്കയും അവിടെ നിങ്ങളോട് ക്രിയാത്മകമായി ചിന്തിക്കാനും നിങ്ങളുടെ സ്വന്തം പരിഹാരങ്ങൾ സൃഷ്ടിക്കാനും ആവശ്യപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ അസ്വസ്ഥത അനുഭവപ്പെടും അതിനാൽ അത് ഒരു സമ്മർദ്ദം ആകാം അടുത്തത് ജോലിസ്ഥലത്തെ വൈകാരിക ആവശ്യങ്ങളാണ് വീണ്ടും മെഡിക്കൽ പ്രൊഫഷൻ നിങ്ങൾക്കറിയാമോ അവർ ചെയ്യുന്ന ജോലിയുടെ അളവ് അവർക്ക് ഉണ്ടായിരിക്കേണ്ട വൈകാരിക ശക്തിയുടെ അളവ് വളരെ വലുതാണ് മാനസികാരോഗ്യ വിദഗ്ധർ അതിനാൽ നിങ്ങൾ മെഡിക്കൽ മേഖലയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ഡോക്ടറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കെയർടേക്കർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകൻ ആണെങ്കിൽ ദിവസം തോറും ആളുകൾ മുറിവേൽക്കുന്നതും ആളുകൾ മരിക്കുന്നതും നിങ്ങൾ കാണുന്നു കൂടാതെ നിങ്ങൾ കുടുംബങ്ങളുമായി ഇടപെടണം നിങ്ങൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ വികാരങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യണം അതിനാൽ നിങ്ങൾ ഒരു വൈകാരിക വ്യക്തിയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം നിങ്ങളെ ബാധിക്കും ഒപ്പം ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് അത് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ തൊഴിലുകളിലുള്ള ആളുകൾക്ക് സുബോധമുള്ളവരായി തുടരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കണം പ്രത്യേകിച്ചും അവർ വൈകാരികമായി സെൻസിറ്റീവ് ആണെങ്കിൽ വൈകാരികമായി സെൻസിറ്റീവ് ആയ ആർക്കും അവർ അവരുടെ വികാരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പഠിക്കുന്നില്ലെങ്കിൽ എങ്ങനെ വിജയകരമായ ഒരു ഡോക്ടറായി മാറുമെന്ന് എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് ഒരു കൊച്ചുകുട്ടി കരയുന്നത് കണ്ടാൽ നിങ്ങൾ അവരോടൊപ്പം കരയും അപ്പോൾ നിങ്ങൾ ഒരു ശിശുരോഗവിദഗ്ദ്ധനാണെങ്കിൽ നിങ്ങൾ ഒരു കുട്ടിയെ വളരെ ബുദ്ധിമുട്ടായ അവസ്ഥകളിൽ കാണുകയാണെങ്കിൽ എങ്ങനെ നിങ്ങളെത്തന്നെ വസ്തുനിഷ്ഠമായി നിലനിർത്തും കൂടാതെ കുട്ടി അതിജീവിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെ കുട്ടിയുടെ മേൽ ഓപ്പറേഷൻ ചെയ്യും അതിനാൽ ഈ തൊഴിലുകളോട് ഈ തൊഴിലുകളിലുള്ള ആളുകൾക്ക് സാമൂഹിക പ്രവർത്തകർക്ക് എമർജൻസി കെയർ വർക്കർമാർക്ക് തുടങ്ങി ദിവസം തോറും മനുഷ്യരുമായി ഇടപഴകുന്നവർക്ക് എന്റെ അഭിവാദ്യങ്ങൾ അതുപോലെ തന്നെ മൃഗങ്ങളെ അടിച്ചമർത്തുന്ന അവസ്ഥയിൽ കാണുന്ന മൃഗസംരക്ഷണ തൊഴിലാളികളും സ്വന്തം വികാരങ്ങൾ നിയന്ത്രണത്തിൽ സൂക്ഷിക്കേണ്ടിവരുന്നു കൂടാതെ ഒരുപക്ഷേ സായുധ സേനയിലെ ആളുകൾ പോലും സ്വന്തം വികാരങ്ങൾ നിയന്ത്രണത്തിൽ സൂക്ഷിക്കേണ്ടിവരുന്നു ഞാൻ ഇവരുടെയും വലിയ ആരാധകനാണ് നിങ്ങൾക്കറിയാമോ ആരെയെങ്കിലും പോയി കൊല്ലാൻ നിങ്ങൾ പ്രത്യേക പരിശീലനം നേടിയിരിക്കണം കാരണം നിങ്ങളുടെ കടമ അത് ആവശ്യപ്പെടുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഒരു തോക്ക് എടുത്ത് മറ്റൊരു മനുഷ്യനെ വെടിവയ്ക്കുക ആ വ്യക്തി രാജ്യത്തിന്റെ ശത്രുവാണെങ്കിൽ പോലും നിങ്ങളുടെ രാജ്യത്തിന് അപകടകരമായേക്കാവുന്ന ഒരു മനുഷ്യനെയും സാധാരണക്കാരനായ മനുഷ്യനെയും വേർതിരിച്ചറിയാൻ വളരെയധികം വൈകാരിക പരിശീലനം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ഈ തൊഴിലുകളിലുള്ള ആളുകൾക്ക് ഹാറ്റ്സ് ഓഫ് അതിനാൽ വൈകാരിക ആവശ്യങ്ങൾ നിങ്ങളെ വളരെയധികം സമ്മർദ്ദത്തിലാക്കും പൈലറ്റുമാരേ നിങ്ങൾക്കറിയാം നിങ്ങൾ ശരിയായി ഉറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിലാകുന്നു അത് നിങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യതയുള്ള തൊഴിലാളിയെ ബാധിച്ചേക്കാം അത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വളരെ വളരെ കൃത്യമായി ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ ബാധിക്കും അടുത്തത് ജോലിയിൽ സാമൂഹിക പിന്തുണയാണ് നമ്മുടെ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ ജോലിസ്ഥലത്ത് ചെലവഴിക്കുന്നു ജോലിസ്ഥലത്തുള്ളവരുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടും നമ്മൾക്ക് ജോലിസ്ഥലത്ത് സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ അത് നമ്മളുടെ മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തും കൂടാതെ നമ്മുടെ മേലുദ്യോഗസ്ഥർ നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അത് നമ്മിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തും അതിനാൽ അത് വളരെയധികം നമ്മളെ വളരെ അസ്വസ്ഥരാക്കും അടുത്ത ആക്രമണം എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഒരു പക്ഷെ അവിടെ രാഷ്ട്രീയം ഉണ്ടാകാം കൂടാതെ അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും ഓർഗനൈസേഷനുകളിലെ നിങ്ങളുടെ സ്ഥാനത്തെ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾക്ക് അറിയില്ല അതിനാൽ അത് ഒരു വലിയ സമ്മർദ്ദം ആകാം ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദത്തിന്റെ പ്രഭാവം ജോലിസ്ഥലത്തെ പിരിമുറുക്കം നമ്മളിൽ ഉണ്ടാക്കിയേക്കാവുന്ന ചില വശങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വ്യക്തിഗത തലത്തിൽ ഇത് ജീവനക്കാരുടെ മാനസിക ക്ഷേമത്തെ ബാധിക്കുന്നു നമ്മൾക്ക് അസ്വസ്ഥത തോന്നുന്നു നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉയർന്നേക്കാം നിങ്ങൾ ആളുകളോട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങാം നിങ്ങൾ ആകാംക്ഷാഭരിതനാകാം നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് സഹിഷ്ണുത കുറവായിരിക്കാം അടുത്തത് വിഷാദം നിങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു എന്തോ പ്രശ്നമുണ്ട് നിരന്തരമായ അനിശ്ചിതത്വമുണ്ട് ജോലി വളരെ കൂടുതലാണ് അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നിങ്ങനെയുള്ള തോന്നലുകൾ ഒപ്പം അത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു കൂടാതെ അത് വളർന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ അത് ശാശ്വതമായ ദുഃഖത്തിൽ കലാശിച്ചേക്കാം അതിനെ വിഷാദം എന്നും വിളിക്കുന്നു വളരെ അധികം ജോലി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ഇഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങൾ ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് പരിമിതമായ ശേഷിയാണ് പരിമിതമായ ശാരീരിക ശക്തിയാണ് ഉള്ളത് അതിനാൽ ഒരു ദിവസം നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നു അതിനാൽ ബേൺഔട്ട് എന്നാൽ തളർച്ചയാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിറവേറ്റുന്നതിനുള്ള നിങ്ങളുടെ കഴിവിന്റെ പൂർണ്ണമായ തളർച്ച ഉത്കണ്ഠ വൈകല്യങ്ങൾ വീണ്ടും ജോലിസ്ഥലത്തെ വളരെയധികം സമ്മർദ്ദം നിങ്ങൾക്കറിയാം സമ്മർദ്ദത്തിന്റെ അളവും അതിനെ നേരിടാനുള്ള നിങ്ങളുടെ കഴിവും അനുസരിച്ച് നിങ്ങൾക്ക് ചില ഉത്കണ്ഠ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീണ്ടും നിങ്ങൾക്കറിയാം നിങ്ങളുടെ പിരിമുറുക്കം വളരെ കൂടുതലായതിനാൽ അനിശ്ചിതത്വം ഉയർന്നതിനാൽ നിങ്ങളെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ പോകുകയാണോ എന്ന് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കാൻ പോകുന്നു കാരണം നിങ്ങൾക്ക് വിവിധ കാരണങ്ങളാൽ ജോലിയിൽ വേണ്ട രീതിയിൽ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകാം അത് ഒരു ദുഷിച്ച ചക്രമായി മാറുമെന്ന് നിങ്ങൾക്കറിയാം അതായത് നിങ്ങൾ സമ്മർദ്ദത്തിലാണ് ജോലിയിൽ അനിശ്ചിതത്വമുണ്ട് കൂടാതെ അത് നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉയരാൻ കാരണമാകുന്നു കൂടാതെ ഈ ഉയർന്ന രക്തസമ്മർദ്ദവും ഉത്കണ്ഠയും ക്ഷിപ്ര കോപത്തിലേക്ക് നയിക്കുന്നു കാരണം അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ആശങ്കാകുലരാണ് അതാകട്ടെ നിങ്ങൾക്കുള്ള ഉത്പാദനതിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു അതാകട്ടെ നിങ്ങളെ പിരിച്ചുവിടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ അത് ഒരു ദുഷിച്ച ചക്രമായി മാറുന്നു വളരെ മോശം ചക്രം അത് തകർക്കാൻ പ്രയാസമാണ് അതിനാൽ കുറഞ്ഞതും ഫലപ്രദവുമായ പ്രതിബദ്ധത കുറയ്ക്കുന്ന പെരുമാറ്റ ഒഴിവാക്കൽ ഇത് സംഭവിക്കാം വളരെയധികം സമ്മർദ്ദമുണ്ട് കൂടാതെ സമ്മർദ്ദത്തെ നേരിടാനുള്ള ശ്രമത്തിൽ നിങ്ങൾ പറയുന്നു ശരി ഞാൻ എന്റെ ജോലിയോട് അധികം ബന്ധം വെയ്ക്കില്ല പക്ഷെ അത് എങ്ങനെ സാധ്യമാകും നിങ്ങളുടെ ജോലിക്ക് നിങ്ങളുടെ ഹൃദയം ആത്മാവ് രക്തം വിയർപ്പ് എന്നിവ നൽകിയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ അത് കുറച്ച് വൈകാരിക ബന്ധം ആയിരിക്കണം ഞാൻ വെറുതെ ആളുകളെ വിശ്വസിക്കുന്നില്ല അവർ ഞാൻ എന്റെ ജോലിയോട് വൈകാരികമായി ബന്ധം പുലർത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ വൈകാരികമായ അടുപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല അത് എന്റെ വ്യക്തിപരമായ തോന്നൽ ആണ് തീർച്ചയായും എന്റെ ഈ അഭിപ്രായം മാറ്റാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു വാദമെങ്കിലും വേണം നിങ്ങൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് മാറിനിൽക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ നിങ്ങൾ വികാരങ്ങൾ ഉയർത്താൻ കഴിയുന്ന സമ്മർദ്ദത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങുന്നു പുകവലി അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ ഭക്ഷണ ക്രമക്കേടുകൾ പോലെയുള്ള വിനാശകരമായ പെരുമാറ്റം വർദ്ധിക്കുന്നു വീണ്ടും ഇത് സമ്മർദ്ദം വളരെ കൂടുതലാവുന്നതിന്റെ മറ്റൊരു ഫലമാണ് അതിനാൽ നിങ്ങൾ പുകവലി ആരംഭിക്കുന്നു നിങ്ങൾ കുടിക്കാൻ തുടങ്ങൂന്നു നിങ്ങൾ വളരെയധികം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു പൂർണമായും ജങ്ക് ഫുഡിൽ നിങ്ങൾ അതിജീവിക്കുന്നു അപ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങുന്നു സംഘടനാ തലത്തിൽ വളരെയധികം സമ്മർദ്ദം നഷ്ടപരിഹാര ക്ലെയിമുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഓർഗനൈസേഷൻ അവരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് വിവരങ്ങൾ ആളുകൾ ശേഖരിക്കാൻ തുടങ്ങും എന്നിട്ട് അത് കോടതിയിൽ ഹാജരാക്കും കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു സ്ഥാപനമെന്ന നിലയിൽ വ്യവഹാരങ്ങൾക്ക് നിങ്ങൾ ബാധ്യസ്ഥനാകാം നിങ്ങളുടെ ജീവനക്കാരിൽ നിങ്ങൾ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു കൂടാതെ സ്ഥാപനം മൂലമുണ്ടാകുന്ന സമ്മർദ്ദം ഒരു പ്രത്യേക വിധത്തിൽ അവരെ ബാധിച്ചുവെന്ന് ഡോക്യുമെന്ററി തെളിവുകളിലൂടെ തെളിയിക്കാൻ ജീവനക്കാർക്ക് കഴിയും അപ്പോൾ അവർ നിങ്ങൾക്കെതിരെ കേസെടുക്കുന്ന നാശനഷ്ടങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയായിരിക്കും ഇത് വ്യക്തമാണ് ആരോ സമ്മർദ്ദം അനുഭവിക്കുന്നു ആർക്കൊക്കെയോ ക്ഷീണം തോന്നുന്നു ആരോ ബേൺഔട്ട് ആവുന്നു ആരോ ഉൽക്കണ്ഠയിലാണ് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷൻ വിടാനുള്ള വർദ്ധിച്ചുവരുന്ന ഉദ്ദേശത്തിലേക്ക് നയിക്കും തീർച്ചയായും ഉത്പാദനക്ഷമത കുറയുന്നു സമ്മർദ്ദത്തിന്റെ മാതൃക നോക്കാം സാധ്യതയുള്ള സ്രോതസ്സുകൾ പരിതസ്ഥിതി ഘടകങ്ങൾ സാമ്പത്തിക അനിശ്ചിതത്വം രാഷ്ട്രീയ അനിശ്ചിതത്വം സാങ്കേതിക മാറ്റം പുതിയ സാങ്കേതികവിദ്യയുടെ വരവ് ശമ്പളം എന്നിവയാകാം സംഘടനാ ഘടകങ്ങൾ ചുമതല ആവശ്യപ്പെടുന്നത് ഉയരാൻ കഴിയും ഒരു റോൾ ആവശ്യപ്പെടുന്നതും ഉയർന്നേക്കാം വ്യക്തിഗത ആവശ്യങ്ങൾ ഉയർന്നേക്കാം വ്യക്തിഗത ഘടകങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന എന്തെങ്കിലും നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ബാധിക്കും കൂടാതെ അത് നിങ്ങൾ ജോലിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ ബാധിക്കും ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നതുപോലെ ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ ഒരു യന്ത്രമല്ല ഞാൻ ഒരു റോബോട്ടല്ല എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോ മരിച്ചിരിക്കുന്നുവെങ്കിലും അത് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ബാധിക്കും കാരണം ഞാൻ എന്റെ കുടുംബവുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഞാനും ഒരു മകളാണ് ഞാനും ഒരു സഹോദരിയാണ് അതായത് ഞാൻ ഇവയെല്ലാം ആണ് എനിക്ക് മകളെന്ന തൊപ്പി നീക്കം ചെയ്ത് ഒരു വശത്ത് വയ്ക്കുവാൻ കഴിയില്ല അല്ലെങ്കിൽ സഹോദരി തൊപ്പി ഒരു വശത്ത് വെച്ച് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇന്ന് ഞാൻ ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കും അതിനാൽ ഈ കാര്യങ്ങളെല്ലാം കാരണം എന്റെ ജോലിയിൽ സമ്മർദ്ദം കൂടുതലാവാം അത് ഒരു വലിയ ഘടകമാണ് വീണ്ടും വ്യക്തിഗത വ്യത്യാസങ്ങൾ ഞാൻ അനുഭവിക്കുന്ന എത്രമാത്രം സമ്മർദ്ദത്തിന് കാരണമാകുന്നു അത് എനിക്ക് ശാരീരിക ലക്ഷണങ്ങൾ നൽകാം അത് എനിക്ക് തലവേദന നൽകാം ഇത് എന്റെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഹൃദ്രോഗം മാനസിക ലക്ഷണങ്ങൾ ഉത്കണ്ഠ വിഷാദം ജോലി സംതൃപ്തി കുറയാനുള്ള സാധ്യത എന്നിവ ഉണ്ടാകാം ഇതിന് കാരണം കുടുംബമായിരിക്കാം കൂടാതെ എനിക്ക് എന്റെ ജോലിയിൽ അതൃപ്തി തോന്നാം എന്റെ ടോളറൻസ് ലെവലുകൾ കുറയും പെരുമാറ്റ ലക്ഷണങ്ങൾ എന്നത് നോക്കാം ഉൽപ്പാദനക്ഷമത കുറയുന്നു ഹാജരാകാതിരിക്കൽ വർദ്ധിക്കുന്നു ചില ദിവസങ്ങളിൽ ജോലിക്ക് പോകണമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ വളരെ ക്ഷീണിതനാണ് അതിനാൽ നിങ്ങൾക്കറിയാമോ ഈ കാര്യങ്ങളെല്ലാം വിറ്റുവരവിനെ ബാധിക്കും നിങ്ങൾ എങ്ങനെയാണ് സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വ്യക്തിഗത തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നിയന്ത്രിക്കാനാകും ശാരീരിക വ്യായാമം നിങ്ങളെ സഹായിക്കുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സഹായകരമാണ് ചില സംഘടനകൾക്ക് അവരുടെ സമുച്ചയങ്ങളിൽ ജിമ്മുകൾ ഉണ്ട് നിങ്ങൾക്കറിയാമോ കെട്ടിടത്തിൽ ഒരു ജിം ഉണ്ട് ഒരു പഞ്ചിംഗ് റൂം ഉണ്ടാകാം നിങ്ങൾ പഞ്ച് ചെയ്യുക നിങ്ങളുടെ അധിക ഊർജ്ജം നിങ്ങൾ അവിടെ ചെലവഴിക്കുന്നു സമ്മർദ്ദം ഒഴിവാക്കാനും അത് നിങ്ങളെ സഹായിക്കുന്നു റിലാക്സേഷൻ ടെക്നിക്കുകൾ ഇപ്പോൾ ക്യാമറ എന്റെ കൈകളിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്ക് ഈ ഞെരുക്കാവുന്ന പന്തുകൾ നൽകിയിരിക്കുന്നു എൻ്റെ അടുത്ത് അതില്ല നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൽ പോലും നിങ്ങൾക്ക് ഞെരുക്കാവുന്ന പന്തുകൾ ഉണ്ട് നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞെരുക്കുന്ന പന്തുകൾക്കെതിരെ നിങ്ങൾ മുഷ്ടി മുറുകെ പിടിക്കുക ഞാൻ ഉദ്ദേശിച്ചത് എന്നെ നോക്കൂ ഈ വ്യായാമം അഞ്ചോ ആറോ തവണ ആവർത്തിക്കുക നിങ്ങളുടെ മുഷ്ടി മുറുകെ പിടിക്കുക അത് തുറക്കുക കൂടാതെ നിങ്ങളുടെ വിരലുകൾ കഴിയുന്നത്ര പുറത്തേക്ക് നിവർത്തുക ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതു ചെയ്യാൻ നിങ്ങളുടെ കൈകൾ പൂർണ്ണമായും നീട്ടാം അല്ലെങ്കിൽ ഇത് ചെയ്യുക നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കൈകൾ ഉയർത്തുക അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കുന്നു വെറും പ്ലെയിൻ കഴുത്ത് വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഇത് നിങ്ങളെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ കഴുത്ത് വെറുതെ കറക്കുക കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു മണിക്കൂറോളം ഇരുന്ന ശേഷം മൂന്നോ നാലോ തവണ ഈ കഴുത്ത് വ്യായാമം ചെയ്യുന്നത് സമ്മർദ്ദം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ ഇവ വിശ്രമ വിദ്യകളാണ് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ആഴത്തിലുള്ള ശ്വാസം എടുക്കുക അത് സഹായിക്കുന്നു ഇത് ചെയ്യൂ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ആഴത്തിലുള്ള ശ്വാസം എടുക്കുക വളരെ ലളിതം ഞാൻ യോഗ വിദഗ്ദ്ധനല്ല അവിടെയുള്ള ഏതെങ്കിലും യോഗികൾ ദയവായി എന്നോട് ക്ഷമിക്കൂ ഞാൻ വെറുതെ എന്നെ സഹായിക്കുന്നത് നിങ്ങളെ കാണിക്കുകയാണ് പക്ഷേ ഇവ വളരെ ലളിതമായ കാര്യങ്ങളാണ് അവ നിങ്ങളെ സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കുന്നു പ്രതിനിധി സംഘം തീർച്ചയായും നിങ്ങളുടെ ജോലിയുടെ ഭാഗം ആരെങ്കിലും ചെയ്യാനുണ്ടാകുന്നത് അതിനാൽ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജോലിയുടെ സമ്മർദ്ദം കുറഞ്ഞ ഭാഗങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിനെ ഏൽപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ ക്ലട്ടേഴ്സ് വൃത്തിയാക്കുന്നതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതിനായി വിളിക്കുക എനിക്ക് ഇതിൽ വേണ്ടത്ര ഊന്നൽ നൽകാനാവില്ല നിങ്ങൾക്ക് ജോലിയിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ നിർദ്ദേശം ഇതാണ് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചിലവഴിച്ച് നിങ്ങളുടെ ഓഫീസ് ക്രമീകരിക്കുക നിങ്ങളുടെ ഡ്രോയറുകളിൽ കൂടി കടന്നുപോകൂ ആവശ്യമില്ലാത്ത പേപ്പറുകൾ പുറത്തെടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കഷണങ്ങളായി അവയെ കീറുക എന്നിട്ട് കീറിയ കഷണങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് ഇടുക അനാവശ്യ പേപ്പറുകൾ ഉപയോഗിക്കുക പ്രധാനപ്പെട്ട രേഖകളുമായി ദയവായി ഇത് ചെയ്യരുത് നിങ്ങൾക്കറിയാമോ ഇനി ആവശ്യമില്ലത ബില്ലുകൾ അല്ലെങ്കിൽ ഇനി സാധുതയില്ലാത്ത കടലാസുകളോ നോട്ടീസുകളുടെ പകർപ്പുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെല്ലോ നാമെല്ലാവരും ഇതെല്ലാം സംഭരിക്കാൻ പ്രവണത കാണിക്കുന്നവരാണ് അതിനാൽ ഇത് എടുക്കുക അഥവാ നിങ്ങൾക്ക് മറ്റൊന്നും ഇല്ലെങ്കിൽ ഒരു പഴയ പത്രം എടുത്ത് ഒരു ദശലക്ഷം കഷണങ്ങളായി കീറുക എന്നിട്ട് അത് ചവറ്റുകുട്ടയിലേക്ക് എറിയുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സുഖം തോന്നും മനഃശാസ്ത്രപരമായ കുഴപ്പങ്ങളും വിവിധ തന്ത്രങ്ങളും നിങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന എന്തെങ്കിലും കണ്ടെത്തുന്നത് നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അവയ്ക്ക് മുൻഗണന നൽകുക ഞാൻ ഇപ്പോൾ എന്തിലാണ് പങ്കെടുക്കേണ്ടത് എന്തിനാണ് അടിയന്തിര ശ്രദ്ധ വേണ്ടത് നാളെ വരെ എന്ത് കാത്തിരിക്കാം പിറ്റേന്ന് വരെ എന്ത് കാത്തിരിക്കാം ഒരു പട്ടിക തയാറാക്കൂ കൂടാതെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനുമുമ്പ് ഈ ലിസ്റ്റ് നോക്കുക എന്നിട്ട് നിങ്ങളുടെ തലയിണയോട് പറയൂ ദയവായി എന്റെ സമ്മർദമെല്ലാം പിടിച്ചുനിർത്തുക നാളെ രാവിലെ വരെ എന്റെ ആകുലതകൾ അടക്കിപ്പിടിക്കുക നാളെ രാവിലെ ഞാൻ ലോഡ് എടുത്ത് വീണ്ടും തലയിൽ വയ്ക്കാം പിന്നെ എന്നെ വിശ്വസിക്കൂ നിങ്ങളുടെ തലയിണ പകുതി സമ്മർദ്ദവും ശ്രദ്ധിക്കുന്നു ഈ രീതിയെ ഓട്ടോസജഷൻ എന്ന് വിളിക്കുന്നു വീണ്ടും പറയട്ടെ ഞാൻ പരിശീലനം ലഭിച്ച സ്ട്രെസ് റിലീവറോ റിലാക്സേഷൻ തെറാപ്പിസ്റ്റോ അല്ല പക്ഷേ ഇവ ഈ അലങ്കോലങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ ലളിതമായ ടെക്നിക്കുകളാണ് തീർച്ചയായും മുൻഗണന നൽകൽ വലിയ കടുപ്പമേറിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാവുന്ന ചെറിയ ലക്ഷ്യങ്ങളയി തിരിക്കുക നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട് അതിനാൽ നിങ്ങൾ ആ പ്രോജക്റ്റ് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെങ്കിൽ അതിനാൽ എന്തുതന്നെയായാലും വർഷാടിസ്ഥാനത്തിൽ തരം തിരിക്കേണ്ടത് ആവശ്യമാണ് തുടർന്ന് ആ വർഷം തിരിച്ചുള്ള ബ്രേക്ക്അപ്പ് മാസം തിരിച്ചുള്ള ബ്രേക്ക്അപ്പിലേക്ക് നിങ്ങുക തുടർന്ന് ആഴ്ച തിരിച്ച് അതിനെ ബ്രേക്ക് ചെയുക ഈ ആഴ്ച അവസാനത്തോടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുക ഞാൻ ആദ്യം ഇത് പൂർത്തിയാക്കട്ടെ ബാക്കിയുള്ളവയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം കൂടാതെ അത് നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകും കൂടാതെ നിങ്ങൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ രണ്ടാഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മൂന്നാഴ്ചയിലും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നു മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ എത്രമാത്രം ചെയ്തുവെന്ന് വീണ്ടും പരിശോധിക്കുക കൂടാതെ അത് പിന്നീടുള്ള ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉത്തേജനം നൽകും ഓർഗനൈസേഷണൽ ലെവൽ പരിശീലനം ലക്ഷ്യം രൂപീകരിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ പരിശീലനത്തെ സഹായിക്കുന്നു നിങ്ങൾക്കായി ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുന്നത് പതിവായിട്ടുള്ള ഉചിതമായ ഫീഡ്ബാക്ക്ന് സഹായിക്കുന്നു നമ്മൾക്ക് പ്രതികരണം ആവശ്യമാണ് നിങ്ങളുടെ സൂപ്പർവൈസർക്ക് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസറുമായി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുവാൻ ശ്രമിക്കുക ഒപ്പം ഫീഡ്ബാക്കിനായി നിങ്ങളുടെ സൂപ്പർവൈസറോട് അഭ്യർത്ഥിക്കുക അത് നിങ്ങളെ വളരെയധികം സഹായിക്കും എച്ച്ആർ പ്രൊഫഷണലുകൾ എന്ന നിലയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് പരിശീലനം ആവശ്യമുള്ള ജീവനക്കാരെ പരിശീലിപ്പിക്കുക എന്നതാണ് നമ്മളുടെ ജീവനക്കാർക്കായി നമുക്ക് കൈവരിക്കാവുന്ന ഹ്രസ്വമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കാൻ കഴിയും നമുക്ക് പതിവായി ഉചിതമായ ഫീഡ്ബാക്ക് നൽകാനുള്ള പ്രതിജ്ഞാബദ്ധത ഉണ്ടാക്കാം അത് നമ്മളുടെ ജീവനക്കാരെ അവർ ചെയ്യേണ്ടത് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്ന് നമ്മൾക്ക് ഒരു ജീവനക്കാരനോട് പറയാൻ കഴിയില്ല ഒരു വ്യക്തിയോട് പറയുന്ന അവ്യക്തമായ കാര്യമാണ് അതെന്ന് ഞാൻ കരുതുന്നു വ്യക്തി പറയുന്നു എന്റെ ആശയവിനിമയ കഴിവിൽ എന്താണ് തെറ്റ് അപ്പോൾ നിങ്ങൾ പറയുന്നു എല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾ ഒരു നല്ല ആശയവിനിമയക്കാരനല്ല എന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ദയവായി എന്നോട് പറയൂ എന്ന് അവർ ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയും ശരി നിങ്ങൾ വാക്കുകൾ ശരിയായി ഉച്ചരിക്കുന്നില്ല ദയവായി നിങ്ങളുടെ വായ തുറന്ന് നിങ്ങളുടെ വാക്കുകൾ പൂർണ്ണമായും ഉച്ചരിക്കുക ദയവായി നിങ്ങളുടെ വാക്കുകൾ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക അവസാനത്തെ അക്ഷരം ഒഴിവാക്കാതിരിക്കുക തുടർന്ന് ഈ വിവരം ലഭിക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നു ഞാൻ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അതിനാൽ നിങ്ങൾ വളരെ വ്യക്തമായി പറയേണ്ടതുണ്ട് ജോലികൾ പുനർരൂപകൽപ്പന ചെയ്യുന്നു നിങ്ങൾക്ക് ടെലികമ്മ്യൂട്ടിംഗ് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ഒരു കൂട്ടം കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്താം ജീവനക്കാരുടെ പങ്കാളിത്തം വർധിപ്പിക്കുന്നത് മറ്റൊന്നാണ് ജോലിയിൽ നിങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനം എടുക്കുന്ന തീരുമാനങ്ങളിൽ ജീവനക്കാരുടെ പങ്കാളിത്തം നിങ്ങൾക്ക് ഉറപ്പാക്കാം ജീവനക്കാരുമായി ഔപചാരികമായ സംഘടനാ ആശയവിനിമയം വർദ്ധിപ്പിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് അവരോട് പറയുക ഞാൻ പറഞ്ഞതുപോലെ അനിശ്ചിതത്വം ആരും ഇഷ്ടപ്പെടുന്നില്ല അനിശ്ചിതത്വമാണ് സമ്മർദത്തിനുള്ള എറ്റവും വലിയ കാരണം അതിനാൽ നിങ്ങളുടെ ജീവനക്കാരോട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുക സംഘടനയിൽ എന്താണ് നടക്കുന്നതെന്ന് പറയുക അത് അവരുടെ സമ്മർദ്ദം കുറയ്ക്കും അത് അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും കൂടാതെ ഞാൻ പറയുന്നു അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടും സംഘടനാ പിന്തുണയുള്ള വെൽനസ് പ്രോഗ്രാമുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും ഫ്ലെക്സി സമയങ്ങളും ടെലികമ്മ്യൂട്ടിംഗും ആളുകൾക്ക് കുറച്ച് നിയന്ത്രണം നൽകുക കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ അവരെ അനുവദിക്കുക അവർ സൃഷ്ടിപരമായിരിക്കട്ടെ അവർക്ക് ജോലി സമയത്തിൽ കയറുന്നതിന് അവർക്ക് കുറച്ച് അയവ് നൽകുക എന്നാൽ തീർച്ചയായും ഇതെല്ലാം സംഘടനയെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ കഴിയുന്നിടത്തോളം അവരെ സഹായിക്കുക കൂടാതെ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സ്ഥാപനത്തിന് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ടെലികമ്മ്യൂട്ട് ചെയ്യാൻ അവരെ അനുവദിക്കുക അത് അവർക്ക് വളരെ സഹായകരമായിരിക്കും അതുവഴി അവർക്ക് തൊഴിൽ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ സാധിക്കും അതിനാൽ ഈ പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗത്ത് ജോലിസ്ഥലത്തെ ജീവനക്കാരുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നത് നമ്മൾ കൈകാര്യം ചെയ്യും അതിനാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിന് വളരെ നന്ദി കൂടാതെ ഞാൻ അടുത്ത ഭാഗത്തിൽ ഈ വിഷയം തുടരും